നാം എനെര്ജിയെക്കുറിച്ചു അല്പം പഠിച്ചതിനാൽ ഒരു വ്യത്യസ്തമായ ഉദാഹരണത്തിലേക്ക് കടക്കാം അതിനു ശേഷം നാം സർക്യൂട് തിയറി യിലേക്ക് വീണ്ടും വരുന്നതാണ് ഇപ്പോൾ ഈ എക്സാമ്പിൾ 1 12 നോക്കാം ഇതാണ് എക്സാമ്പിൾ 12 ഒരു ഗാർഹിക ഉപഭോക്താവ് 800 കിലോ വാട്ട് അവർ മാർച്ച് മാസത്തിൽ ഉപയോഗിക്കുന്നു ഒരു മാസത്തിൽ ഉപയോഗിക്കുന്ന ഇലെക്ട്രിസിറ്റി യുടെ അളവ് ഈ തന്നിരിക്കുന്ന വിവരം ഉപയോഗിച്ച് നിർണയിക്കുക ഉദാഹരണത്തിന് മാസ നിരക്ക് 12 പിന്നെ ആദ്യ 100 കിലോ വാട്ട് അവർ നു 1 5 രൂപ പേർ കിലോ വാട്ട് അവർ എന്നും അടുത്ത 200 കിലോ വാട്ട് അവർ നു 2 പേർ കിലോ വാട്ട് അവർ പിന്നെ അതിനു മുകളിൽ 2 5 രൂപ എന്നും എടുക്കുക ഇനി നമുക്ക് ഇലെക്ട്രിസിറ്റി ബില്ല് കണക്കു കൂട്ടണം മാസ നിരക്ക് 12 പിന്നെ ആദ്യ 100 കിലോ വാട്ട് അവർ നു 1 5 രൂപ പേർ കിലോ വാട്ട് അവർ അത് 100 1 5 അത് 150 രൂപ അടുത്ത 200 കിലോ വാട്ട് അവർ നു 2 പേർ കിലോ വാട്ട് അവർ പിന്നെ അതിനു മുകളിൽ 2 5 രൂപ ഇനി അടുത്ത 200 കിലോ വാട്ട് അവർ നു 2 പേർ കിലോ വാട്ട് അവർ അത് 2200 അത് 400 രൂപ ഇനി അകെ 800 കിലോ വാട്ട് അവർ ആണല്ലോ അത് 100 200 300 കിലോ വാട്ട് അവർ നാം ഇപ്പോൾ കണക്കു കൂട്ടി അത് 150ഉം പിന്നെ 400 രൂപ വീതം ആണ് ഇനി ബാക്കി ഉള്ളത് 500 കിലോ വാട്ട് അവർ ആണ് 5 രൂപ വീതമാണ് അപ്പോൾ 500 2 5 അതായതു 1250 രൂപ ആണ് ഇത് എല്ലാം കൂടെ കൂട്ടുകയാണേൽ നമുക്ക് 1812 രൂപ ആണ് വാർഷിക ഗാർഹിക ഉപഭോഗം എന്നത് 800 കിലോ വാട്ട് അവർ എന്നതാണ് ഇത് ശരാശരി കണക്കാക്കാൻ ഉപയോഗിക്കുക അത് 1812 രൂപയെ 800 കിലോ വാട്ട് അവർ വച്ച് ഡിവൈഡ് ചെയ്യുക അത് ഏകദേശം 2 265 രൂപയാണ് ഒരു കിലോ വാട്ട് അവർ നു ഇത് ലളിതമായ ഒരു ഉദാഹരണം ആണ് നാം എനർജി എന്നത് നാം കണക്കു കൂട്ടികഴിഞ്ഞു അത് പവർ ടൈം ആണ് അത് പവർ നെ മണിക്കൂർ വച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അതാണ് കിലോ വാട്ട് അവർ ആണ് എന്തെന്നാൽ കിലോ വാട്ട് എന്നത് പവറും പിന്നെ അവർ hour എന്നത് സമയവും ആണ് ഇനി ഒരു ലളിതമായ ഉദാഹരണം നോക്കാം അത് വളരെ ലളിതമാണെന്നു പ്രതീക്ഷിക്കാം ഇനി ഉദാഹരണം 13 ആണ് ഇതിൽ ഓരോ കംപോണന്റ് സ്വീകരിച്ചതോ കൊടുത്തോ ആയ പവർ എത്രയെന്നു കണക്കു കൂട്ടുകയാണ് ചെയ്യേണ്ടത് സർക്യൂട് ഫിഗർ 19 ൽ കൊടുത്തിരിക്കുന്നു ഇത് ഒരു ഇലെക്ട്രിക്കൽ എലെമെന്റ് ആണ് അതിൽ 5 വോൾട് അത് ഒന്നുകിൽ സ്വീകാരിക്കും അല്ലെങ്കിൽ കൊടുക്കുന്നതിനാണ് അത് നാം പിന്നീട് നോക്കുന്നതാണ് ഇതാണ് പവർ p ഇതൊരു വോൾടേജ് സോഴ്സ് ആണ് ഇത് മറ്റൊരു ഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് പിന്നെ ഇത് മറ്റൊരു സോഴ്സ് അത് 3 വോൾട് ആണ് ഓരോ സോഴ്സിലും ഉള്ള സ്വീകരിച്ചതോ കൊടുത്തോ ആയ പവർ എത്രയെന്നു കണ്ടു പിടിക്കാം ഇത് 8 ആമ്പിയർ കറന്റ് ആണ് നമുക്ക് ഈ എലമെന്റ് ൽ നിന്നും ആരംഭിക്കാം അതിനു കുറുകെ ഉള്ള വോൾടേജ് 5 വോൾട് ആണ് അപ്പോൾ പവർ p 1 എന്നത് സ്വീകരിക്കുകയോ കൊടുക്കുകയോ ആകാം ഈ 8 ആമ്പിയർ കറന്റ് എന്നത് ഈ ടെർമിനൽ ൽ നിന്നും പുറത്തേക്കു പോകുകയാണ് ചെയ്യുന്നത് അപ്പോൾ സൈൻ എന്നത് നെഗറ്റീവ് ആണ് പവർ കൊടുക്കുകയാണ് ഇത് 8 ആമ്പിയർ ആണ് അത് യഥാർത്ഥത്തിൽ ഈ ടെർമിനൽ നിന്നും പുറത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഈ p 1 എന്നത് 5 8 അത് 40 ആണ് അത് സപ്ലൈ ചെയ്യുകയാണ് 8 ആമ്പിയർ കറന്റ് എന്നത് ഈ ടെർമിനൽ ൽ നിന്നും പുറത്തേക്കു പോകുകയാണ് ചെയ്യുന്നത് ഞാൻ അത് പ്രതീക്ഷിച്ചിരുന്നു അപ്പോൾ ഈ p 1 എന്നത് 5 8 അത് 40 ആണ് ഇത് സപ്ലൈ ചെയ്യുകയാണ് ഇനി ഇവിടെ ഈ 8 ആമ്പിയർ കറന്റ് ടെർമിനലിലേക്കു പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ അർഥം ഇവിടെ പവർ അബ്സോർബ് ചെയ്യുകയാണ് ഈ കേസിൽ വോൾടേജ് എന്നത് 2 വോൾട് പിന്നെ കറന്റ് 8 ആമ്പിയർ അപ്പോൾ 16 വാട്ട് പവർ ഇവിടെ സ്വീകരിക്കപ്പെടുകയാണ് അതാണ് p 2 ഈ കറന്റ് ഇവിടെ പ്രവേശിക്കുകയാണ് അതിനാൽ p 2 എന്നത് 2 8 16 ആണ് അത് സ്വീകരിച്ചു ഇനി 3 ആമ്പിയർ ഇനി ഇവിടെ 8 ആമ്പിയർ കറന്റ് അതിന് ഈ 3 ആമ്പിയർ ഇവിടെയാണ് ഇതൊരു ഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് 6 ആണ് പിന്നെ ഇത് 5 ആമ്പിയർ ഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് ന്റെ വോൾടേജ് എന്നത് 3 വോൾട് ആണ് ഈ 3 ആമ്പിയർ കറന്റ് എന്നത് പോസിറ്റീവ് ടെർമിനൽ ലേക്കാണ് പ്രവേശിക്കുന്നത് അതിനാൽ പവർ എന്നത് സ്വീകരിക്കുകയാണ് ഇവിടെ അത് 3 ആമ്പിയർ ഇൻ റ്റു 3 വോൾട് ആയിരിക്കും അപ്പോൾ p 3 എന്നത് 9 വാട്ട് ആയിരിക്കും അത് നോക്കുക ഈ p 3 എന്നത് 0 അത് 3 വോൾട് 3 ആമ്പിയർ ആണെന്ന് നാം നേരത്തെ കണ്ടതാണ് അത് 9 വാട്ട് പവർ അബ്സോർബ് ആണ് ഇനി അടുത്ത് ഈ 5 ആമ്പിയർ കറന്റ് ഇവിടെ പോസിറ്റീവ് ടെർമിനൽ ലൂടെ പ്രവേശിക്കുന്നതായതിനാൽ പവർ സ്വീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇത് p 4 ആണ് അത് കൊണ്ട് അത് 5 ആമ്പിയർ 3 വോൾട് അത് 15 വാട്ട് ആണ് അപ്പോൾ p4 എന്നത് 5 ആമ്പിയർ 3 വോൾട് അത് 15 വാട്ട് പവർ സപ്ലൈ ചെയ്യുകയാണേൽ അത് നെഗറ്റീവ് ആണ് അത് 40 വാട്ട് ആണ് ഇവിടെ പവർ സ്വീകരിക്കുകയാണ് അത് 16 വാട്ട് എന്നാൽ ഇവിടെ അത് 9 വാട്ട് ആണ് അപ്പോൾ 16 9 അതായതു 25 വാട്ട് ഇവിടെ അത് 15 വാട്ട് അപ്പോൾ 40 വാട്ട് പവർ സപ്ലൈ ചെയ്യുകയാണേൽ അത് നെഗറ്റീവ് ആണ് ഇവിടെ സ്വീകരിച്ച പവർ എന്നത് 40 വാട്ട് ആണ് നൽകിയതും 40 വാട്ട് ഇത് രണ്ടും മാച്ച് ചെയ്യുന്നു ഇത് വ്യക്തമായി എന്ന് കരുതുന്നു മറ്റൊരു ഉദാഹരണം നോക്കാം ഇത് ഈ ഫിഗർ 20 യെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് ഏതു സാധു പിന്നെ ഏതു അസാധു എന്ന് നിര്ണയിക്കേണ്ടി ഇരിക്കുന്നു ഇവിടെ 4 കണക്ഷനുകൾ ആണുള്ളത് അതിൽ ഏതൊക്കെ സാധു പിന്നെ ഏതൊക്കെ അസാധു എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇനി ഈ കണക്ഷൻ 1 നോക്കുക ഇത് ടെർമിനൽ 1 പിന്നെ ഇത് ടെർമിനൽ 2 ഈ രണ്ടു ടെർമിനലുകൾക്കു കുറുകെ ഉള്ള വോൾടേജ് എന്നത് 5 വോൾട് ആണ് പിന്നെ ഈ 1 നും 2 നും ഇടയിൽ ഒരു ഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് അത് V s 4 V ആണ് ഇനി നാം V എന്നത് 5 V ആക്കിയാൽ അത് 4 5 എന്നത് 20 വോൾട് ആകേണ്ടതാണ് പക്ഷെ ഒരേ ടെർമിനൽ നു കുറുകെ രണ്ടു വോൾടേജ് സോഴ്സ് കണക്ട് ചെയ്യാൻ പാടില്ല അതിനാൽ ഇത് അസാധു ആണ് ഇനി നാം ഇതിലേക്ക് വന്നാൽ ഇവിടെ V 5 വോൾട് ആണ് 2 V അത് 5 വോൾട് ആണ് അപ്പോൾ ഉത്തരം 2 5 അതായതു 10 ആമ്പിയർ അതിനാൽ ഇത് ഒരു വാലിഡ് സർക്യൂട് കണക്ഷൻ ആണ് ഒരു വോൾടേജ് സോഴ്സ് ഉം പിന്നെ ഒരു ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ഉം ഉണ്ടെങ്കിലും ഇത് വാലിഡ് ആണ് പക്ഷെ ഇത് ഇൻ വാലിഡ് ആണ് ഇനി ഇവിടെ നോക്കുക ഈ കറന്റ് സോഴ്സ് എന്നത് 2 ആമ്പിയർ ആണ് എന്നാൽ ഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് V s 4 ആണ് അപ്പോൾ V s 4 2 അത് 8 വോൾട് അപ്പോൾ ഇതൊരു കറന്റ് സോഴ്സ് പിന്നെ ഇതൊരു ഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് അത് സീരീസ് ആണ് ഇത് നാം പിന്നെ നോക്കുന്നതാണ് ഇതൊരു വാലിഡ് കണക്ഷൻ ആണ് ഇത് 1 ഉം 2 ഉം ടെർമിനൽ ന്റെ ഇടയിൽ ആണ് അത് വാലിഡ് ആണ് ഇനി ഇതൊരു കറന്റ് സോഴ്സ് ആണ് അത് 3 ആമ്പിയർ ആണ് ഇനി ഈ ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ൽ i x 3 i s ആണ് അപ്പോൾ i s 3ആമ്പിയർ ആണ് i x i 3 3 അത് 9 ആമ്പിയർ ആണ് എന്നാൽ ഇത് 3 ആമ്പിയർ ആണ് ഇവിടെ അത് 9 ആമ്പിയർ അതിനാൽ ഇത് സാധ്യമല്ല ഇൻ വാലിഡ് ആണ് ഇനി ഈ സർക്യൂട് ൽ ഇത് ഇൻ വാലിഡ് ആണ് പിന്നെ ഇതും ഇൻ വാലിഡ് ആണ് എന്നാൽ ഈ b യും c യും വാലിഡ് ആണ് എന്നാൽ a യും d യും ഇൻ വാലിഡ് ആണ് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് പിന്നീട് നാം ഇതിലൂടെ വരുന്നതാണ് എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഇത് എന്താണെന്നു ഞാൻ പറയേണ്ടി ഇരിക്കുന്നു ഇനി ഇതിൽ പവർ സ്വീകരിച്ചതും നൽകിയതും എത്രയാണെന്ന് കണ്ടെത്തുക അത് ഈ ഫിഗർ 1 21 ആണ് ഇതാണ് ചാപ്റ്റർ 1 അത് ഫിഗർ ആണ് ഞാൻ പറയുന്നു ഫിഗർ 21 ഇനി ഇവിടെ 1 2 3 4 ഇവിടെ അങ്ങനെ 4 എലെമെന്റുകൾ ആണുള്ളത് പിന്നെ ഇവിടെ കറന്റ് എന്നത് 10 ആമ്പിയർ ആണ് അതിനാൽ ഇതാണ് I അത് ശരിക്കും 10 ആമ്പിയർ ആണ് ഇനി ഇത് നോക്കുക ഇത് 10 ആമ്പിയർ ആണ് അത് ഇവിടെ നിന്നും പുറത്തേക്കാണ് ഒഴുകുന്നത് ഇത് 16 വോൾട് സോഴ്സ് ആണ് അതിനാൽ 10 ആമ്പിയർ കറന്റ് പോസിറ്റീവ് ടെർമിനൽ നിന്നും പുറത്തേക്കാണ് പോകുന്നത് അതിന്റെ അർഥം പവർ സപ്ലൈ ചെയ്യുകയാണ് അതിനാൽ ഇത് 16 വോൾട് സോഴ്സ് ആണ് ക്ഷമിക്കണം ഇത് യഥാർത്ഥത്തിൽ കറന്റ് സോഴ്സ് ആണ് അതിന്റെ കുറുകെ ഉള്ള വോൾടേജ് ആണ് 16 വോൾട് അതിനാൽ ഇതൊരു കറന്റ് സോഴ്സ് ആണ് ഈ 10 ആമ്പിയർ കറന്റ് എന്നത് ഈ 6 വോൾട് ന്റെ നെഗറ്റീവ് ടെർമിനൽ കൂടെ പ്രവേശിക്കുകയാണ് അതിനാൽ ഇതൊരു കറന്റ് സോഴ്സ് ആണ് അതിനു കുറുകെ ഉള്ള വോൾടേജ് ആണ് 16 വോൾട് അപ്പോൾ ഇത് ഒരു കറന്റ് സോഴ്സ് ആണ് പിന്നെ ഇത് ഒരു വോൾടേജ് സോഴ്സ് ഇതൊരു ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ആണ് ഈ കേസിൽ ഇതിനു കുറുകെ ഉള്ള വോൾടേജ് 16 വോൾട് ആണ് ഇനി നമുക്ക് p 4 ആണ് കണ്ടുപിടിക്കേണ്ടത് ഇത് p2 പിന്നെ ഇത് p 1 ഇത് യഥാർത്ഥത്തിൽ p 1 ആണ് നോക്കുക ഞാൻ ഇത് തിരുത്തുകയാണ് ഇത് p1 ആണ് അപ്പോൾ ഈ കറന്റ് സോഴ്സ് യഥാർത്ഥത്തിൽ പവർ സപ്ലൈ ചെയ്യുകയാണ് എന്തെന്നാൽ ഇവിടെ ഈ ടെർമിനൽ നിന്നും പുറത്തേക്കു പോകുകയാണ് അപ്പോൾ p1 എന്നത് 16 10 ആണ് അതിനാൽ 160 വാട്ട് അതിനാൽ p 1 16 10 ഇത് സപ്ലൈ ചെയ്യപ്പെട്ട പവർ ആണ് ഇനി ഇത് നോക്കുക ഇത് 10 ആമ്പിയർ കറന്റ് നെഗറ്റീവ് ടെർമിനലിൽ പ്രവേശിക്കുകയാണ് അതായതു ടെർമിനലിൽ നിന്നും പുറത്തേക്കു പോകുന്നു അപ്പോൾ ടെർമിനലിൽ കൂടെ പുറത്തേക്കു പോകുന്നു പിന്നെ 6 വോൾട് ഇത് പവർ സപ്ലൈ ചെയ്യുകയാണ് എന്തെന്നാൽ കറന്റ് ന്റെ ഡയറൿഷൻ ഇതാണ് കറന്റ് ന്റെ ദിശ ഇങ്ങനെ ആണെങ്കിൽ അതായതു ടെർമിനലിൽ കൂടെ പ്രവേശിക്കുന്നു അതോടൊപ്പം ടെർമിനലിൽ കൂടെ പുറത്തേക്കു പോകുന്നു അപ്പോൾ ഈ p 2 ഉം പവർ സപ്ലൈ ചെയ്യുകയാണ് അതിന്റെ സൈൻ ആണ് അതിനാൽ ഈ p 2 എന്നതു 6 10 60 വാട്ട് പവർ ആണ് സപ്ലൈ ചെയ്യുന്നത് ഇത് 10 ആമ്പിയർ കറന്റ് സോയൂസ് ആണ് എന്തെന്നാൽ ഈ 10 ആമ്പിയർ ഇവിടെ സപ്ലൈ ചെയ്യുകയാണ് അതിനാൽ പവർ എന്നത് 60 വാട്ട് ആണ് ഇനി ഈ 6 ആമ്പിയർ മറ്റൊരു കറന്റ് ആയ ഈ 6 ആമ്പിയർ ഇവിടെ 22 വോൾട് സോഴ്സ് ലേക്ക് പ്രവേശിക്കുകയാണ് അതിനാൽ ഇത് പോസിറ്റീവ് ടെർമിനലിൽ പ്രവേശിക്കുകയാണ് അതിന്റെ അർഥം ഈ വോൾടേജ് സോഴ്സ് എന്നത് പവർ അബ്സോർബ് ചെയ്യുകയാണ് അപ്പോൾ p 3 എന്നത് 22 6 അതായത് 132 വാട്ട് അപ്പോൾ p 3 എന്ന പവർ 22 6 132 വാട്ട് അബ്സോർബ് ചെയ്യുകയാണ് അടുത്ത് വേറൊരു ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് അത് 0 4 I ആണ് ഇവിടെ I എന്നത് 10 ആമ്പിയർ ആണ് അത് ഞാൻ ഇവിടെ എഴുതുകയാണ് അതിനാൽ 0 4 I ഇവിടെ I എന്നത് 10 ആമ്പിയർ ആണ് പിന്നെ ഇത് യഥാർത്ഥത്തിൽ 4 വോൾട് ആണ് ഇതാണ് ഇവിടെ ടെർമിനൽ ഇവിടെ ഈ വയർ മാത്രമാണ് ഇവിടെ പിന്നെ ഇവിടെ അതിന്റെ അർഥം കറന്റ് ന്റെ ഡയറക്ഷൻ എന്നത് ഈ വഴിക്കാണ് അതിന്റെ അർഥം കറന്റ് എന്നത് പോസിറ്റീവ് ടെർമിനലിൽ കൂടെ ആണ് പ്രവേശിക്കുന്നത് അപ്പോൾ ഈ ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് എന്നത് പവർ അബ്സോർബ് ചെയ്യുകയാണ് ഇത് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് ഇവിടെ അപ്പോൾ കറന്റ് ന്റെ ഡയറക്ഷൻ എന്നത് ഈ വഴിക്കാണ് ഇത് പിന്നെ ഇത് ഇതാണ് കറന്റ് ന്റെ ഡയറക്ഷൻ അപ്പോൾ അത് ഈ ടെർമിനലിൽ ആണ് പ്രവേശിക്കുന്നത് എന്തെന്നാൽ ഇതാണ് പോസിറ്റീവ് ടെർമിനൽ നാം അതിനെ വിളിക്കുക ഇതാണ് ഇതാണ് കറന്റ് സോഴ്സ് സോറി ഇത് 4 10 അതായതു 4 ആമ്പിയർ സോറി ഇത് കറന്റ് സോഴ്സ് അതിനാൽ ഇത് 4 ആമ്പിയർ സോറി അതിനാൽ ഇത് 4 ആംപിയർ ആണ് ഇനി ഇവിടെ വോൾടേജ് എന്താണ് വേറെ ഒരു ഇലെക്ട്രിക്കൽ എലമെന്റ് ഇവിടെ ഇല്ല അപ്പോൾ ഈ കറന്റ് സോഴ്സ് നു കുറുകെയും വോൾടേജ് 22 വോൾട് ആണ് എന്തെന്നാൽ ഇവിടെ വോൾടേജ് 22 വോൾട് ആണ് അതിനാൽ ഈ ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് നു കുറുകെ ആയി ഈ വോൾടേജ് സ്ഥാപിക്കപ്പെടും ഇത് യഥാർത്ഥത്തിൽ 4 ആമ്പിയർ ആണ് അതിന്റെ അർഥം 22 4 ഈ പവർ ഇവിടെ അബ്സോർബ് ചെയ്യുകയാണ് ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യുകയാണ് ഇതിലേക്ക് വീണ്ടും വരിക ഇത് യഥാർത്ഥത്തിൽ p 4 ആണ് അപ്പോൾ ഈ p 4 എന്നത് 22 0 4 10 ആണ് അത് 88 വാട്ട് ആണ് ആ പവർ അബ്സോർബ് ചെയ്തു ഇനി നാം ഈ 132 പിന്നെ 88 എന്നീ പവർ അബ്സോർബ് കൂട്ടിയാൽ അത് 220 ആകുന്നു ഇനി നോക്കുക പവർ സപ്ലൈ എന്നത് 160 യും 60 യും ആണ് അത് 220 ഇത് കൃത്യമായി മാച്ച് ചെയ്യുന്നു ഇത് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ 22 വോൾട് എന്നത് ഈ ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് നു കുറുകെ സ്ഥാപിക്കപ്പെടുന്നു ഇനി I എന്നത് 10 ആംപിയർ ആണ് 4 I അത് 4 ആംപിയർ ഈ ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് നു കുറുകെ ഉള്ള വോൾടേജ് എന്നത് 22 വോൾട് ആണ് അതിനാൽ അത് 22 4 ആണ് ഏതൊക്കെ വോൾടേജ് ഞാൻ ഇവിടെ കാണിച്ചാലും പൊളാരിറ്റി എന്തെന്ന് ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത് എന്താണെന്നാൽ ഇതിനെയെല്ലാം കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകേണ്ടതാണ് എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം കൃത്യമായി സോൾവ് ചെയ്യാനാകൂ ഇവിടെ ഒരു കൺഫ്യൂഷനും ഉണ്ടാകാൻ പാടില്ല ഞാൻ ഇത് ഒന്ന് കൂടി നോക്കുന്നു ഇവിടെ കറന്റ് എന്നത് 4 ആംപിയർ ആണ് ഞാൻ തെറ്റി ഇവിടെ 4 വോൾട് എന്നെഴുതി ഇത് 4 ആംപിയർ ആണ് ഇനി അടുത്ത് നോക്കാം ഇനി ഒരു ചെറിയ കാര്യം ആണ് നോക്കേണ്ടത് പക്ഷെ അത് ഒരു ത്രന്ത്ര ശാലി ആണ് നാം ഇത് പഠിക്കുമ്പോൾ പക്ഷെ കോൺസെപ്റ് എല്ലാം വ്യക്തമായാൽ പിന്നീട് അത് രസകരമായി തോന്നും ഉദാഹരണത്തിന് ഈ ഫിഗർ 22 എന്നത് ഒരു സർക്യൂട് ഡയഗ്രം ആണ് അതിലെ പവർ കൊടുത്തതും സ്വീകരിച്ചതും എത്ര ആണെന്ന് കണ്ടെത്തുക ആദ്യം തന്നിരിക്കുന്നത് V 1 വോൾട് പിന്നെ I 2 ആമ്പിയർ ആണ് ഇനി ഈ വോൾടേജ് സോഴ്സ് പവർ എത്രയാണ് സപ്ലൈ ചെയ്തത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തത് എന്നാണ് അറിയേണ്ടത് ആദ്യം തന്നിരിക്കുന്നത് V 1 വോൾട് പിന്നെ I 2 ആമ്പിയർ I എന്നത് 2 ആമ്പിയർ ആകുമ്പോൾ ഇതാണ് കറന്റ് ന്റെ ഡയറക്ഷൻ അതിന്റെ അർഥം കറന്റ് ഇങ്ങനെയാണ് ഒഴുകുന്നത് അതായതു കറന്റ് ഈ പോസിറ്റീവ് ടെർമിനലിൽ പ്രവേശിക്കുകയാണ് അപ്പോൾ ഈ വോൾടേജ് സോഴ്സ് എന്നത് പവർ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് വോൾടേജ് എന്നത് 1 വോൾട് ആണ് അപ്പോൾ V എന്നത് 1 വോൾട് പിന്നെ I എന്നത് 2 ആംപിയർ അപ്പോൾ പവർ 2 1 അതായതു 2 വാട്ട് അത് ഈ വോൾടേജ് സോഴ്സ് അബ്സോർബ് ചെയ്തു അതായതു ഈ 2 വാട്ട് പവർ സ്വീകരിച്ചു ഇനി അടുത്തത് നോക്കുക V 6 വോൾട് ആണ് എന്നാൽ കറന്റ് എന്നത് 4 ആമ്പിയർ അതിനാൽ ഈ സർക്യൂട് ൽ ഞാൻ ഇത് വീണ്ടും വറക്കുക ആണ് ഈ കേസ് b നോക്കുക V 6 വോൾട് പിന്നെ I 4 ആമ്പിയർ അപ്പോൾ കറന്റ് ദിശ തിരിഞ്ഞു അപ്പോൾ കറന്റ് I എന്നത് ഇങ്ങനെ വേണം വരയ്ക്കാൻ ഞാൻ ഇത് ഇതുപോലെ വരച്ചു കഴിഞ്ഞാൽ I 4 ആകും അതായതു ഈ ഡയറക്ഷനിൽ ഞാൻ ഈ ആരോ ഈ ദിശയിൽ ആക്കുന്നു ഇവിടെ വോൾടേജ് എന്നത് 6 വോൾട് ആണ് അപ്പോൾ അത് 6 വോൾട് ഇനി രണ്ടാമത്തെ കേസ് നോക്കുക V 6 വോൾട് പിന്നെ I എന്നത് 4 ആമ്പിയർ അത് ഈ ഡയറക്ഷൻ ആണ് അതിന്റെ അർഥം ഈ ഡയറക്ഷൻ എന്നത് 4 ആമ്പിയർ ആയി എടുക്കാം അതായത് കറന്റ് യഥാർത്ഥത്തിൽ ടെർമിനലിൽ നിന്നും പുറത്തേക്കാണ് അടിസ്ഥാനപരമായി ഈ കറന്റ് പോസിറ്റീവ് ടെർമിനലിൽ നിന്നും പുറത്തേക്കാണ് പോകുന്നത് നമുക്കറിയാം കറന്റ് I എന്നത് 4 ആംപിയർ ആണ് പിന്നെ വോൾടേജ് എന്നത് 6 വോൾട് അപ്പോൾ ഈ p എന്നത് 24 വാട്ട് ആയിരിക്കും എന്നാൽ അത് ൽ നിന്നും പുറത്തേക്കാണ് അതിനാൽ പവർ ഇവിടെ സപ്ലൈ ചെയ്യുകയാണ് അതിനാൽ 24 വാട്ട് ആണ് അപ്പോൾ ഈ വോൾടേജ് സോഴ്സ് ഇവിടെ പവർ കൊടുക്കുകയാണ് ഞാൻ ഇത് ക്ലീൻ ആക്കുകയാണ് ഞാൻ ഇതിലേക്ക് തിരിച്ചു വരാം ഇവിടെ p VI ആണ് അത് സപ്ലൈ ചെയ്തു ഇനി മൂന്നാമത്തെ കേസ് നമുക്ക് തന്നിരിക്കുന്നത് v 12 വോൾട് ആണ് പിന്നെ I 16 ആമ്പിയർ ഇത് ഞാൻ വീണ്ടും വരയ്ക്കുന്നു ഇതിൽ v 12 വോൾട് ആണ് പിന്നെ I 16 ആമ്പിയർ കണക്കു കൂട്ടുന്നതിലും എളുപ്പത്തിൽ ഇത് നമുക്ക് ഏറ്റവും ലളിതമായി എങ്ങനെ കണ്ടെത്താം ഇതാണ് എന്റെ കറന്റ് അത് I 16 ആമ്പിയർ ആണ് അപ്പോൾ ഈ കറന്റ്ന്റെ ദിശ തന്നിരിക്കുന്നു ഇത് പോസിറ്റീവ് ആണ് ഈ I എന്നത് പോസിറ്റീവ് ആകുമ്പോൾ ഉള്ള ഡയറക്ഷൻ ആണ് ഇത് എന്നാൽ ഇവിടെ I 16 എന്ന് പറയുമ്പോൾ ഈ ആരോ താഴോട്ടാക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത് വോൾടേജ് സോഴ്സ് എന്നതും തന്നിട്ടുണ്ട് അത് 12 വോൾട് ആണ് ഇത് ആക്കിയാൽ ഇത് ആക്കും അതിന്റെ അർഥം വോൾടേജ് എന്നത് 12 വോൾട്ടും പിന്നെ കറന്റ് എന്നത് 16 ആമ്പിയർ ആകും ഞാൻ ഇവിടെ ചെയ്തത് V 12 എന്നതിന്റെ ഡയറക്ഷൻ മാറ്റുകയാണ് പിന്നെ ഞാൻ കറന്റ് ന്റെ ഡയറക്ഷനും മാറ്റി ക്ഷമിക്കണം ഇത് 16 ആമ്പിയർ ആണ് അതിനാൽ ഞാൻ കറന്റ് ന്റെ ദിശയും മാറ്റുകയുണ്ടായി അപ്പോൾ V 12 ആണ് ഞാൻ പൊളാരിറ്റി തിരിച്ചു അതിന്റെ അർഥം ഇവിടെ കറന്റ് ഫ്ലോ ചെയ്യുന്നത് ഈ ദിശയിൽ ആണ് അപ്പോൾ കറന്റ് എന്നത്പോസിറ്റീവ് ടെർമിനലിൽ കൂടെ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ എലമെന്റ് പവർ അബ്സോർബ് ചെയ്യുകയാണ് അത് p 16 12 വാട്ട് ആണ് ഇവിടെ പവർ അബ്സോർബ് ചെയ്യുകയാണ് എന്തെന്നാൽ കറന്റ് എന്നത്പോസിറ്റീവ് ടെർമിനലിൽ കൂടെ പ്രവേശിക്കുകയാണ് അത് 192 വാട്ട് ആയിരിക്കും ഇത് മനസ്സിലായി എന്ന് കരുതാം നാം ഇത് ലളിതമായി മനസ്സിലാക്കേണ്ടതാണ് എന്തെന്നാൽ നാം ഇത് കൂടുതൽ കഠിനം ആക്കരുത് ഇത് നാം ലളിതമാക്കിയാൽ ഇതെല്ലാം തന്നെ നമുക്ക് ഈസി ആകും ഞാൻ ഇത് ക്ലീൻ ആക്കുകയാണ് ഇങ്ങനെ ആണ് ഞാൻ ഈ കണക്കു കൂട്ടലുകൾ നടത്തിയത് ഈ 192 വാട്ട് പവർ ഇവിടെ അബ്സോർബ് ചെയ്തു ഇതെല്ലാം തന്നെ ഇവിടെ ഉണ്ട് ഇനി ഈ ഫിഗർ നോക്കുക ഇത് എക്സാമ്പിൾ 17 നു ആണ് ഫിഗർ 27 ഈ സർക്യൂട് ഡയഗ്രം ആണ് ഇവിടെ I 4 ആമ്പിയറും പിന്നെ I 3 ആമ്പിയറും ആകുമ്പോൾ ഉള്ള p1 p2 എന്നിവ കണക്കു കൂട്ടുക ഇത് ഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് ആണ് ആദ്യം I എന്നത് 4 ആമ്പിയർ ആണ് ഈ ഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് എന്നതിന്റെ വാല്യൂ 2 I ആണ് അപ്പോൾ വോൾടേജ് എന്നത് 2 4 ആണ് എന്തെന്നാൽ ഇവിടെ I 4 ആമ്പിയർ ആണ് ഈ കേസിൽ എന്താണ് സംഭവിക്കുക ഇത് 2 4 വോൾട് ആണ് അതായതു 8 വോൾട് ഇവിടെ I 4 ആമ്പിയർ ആണ് ഈ കറന്റ് എന്നത് ഈ ഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് ന്റെ പോസിറ്റീവ് ടെർമിനലിൽ പ്രവേശിക്കുകയാണ് അതിന്റെ അർഥം ഇവിടെ I 4 ആമ്പിയർ ആണ് അത് ആദ്യം ഈ വോൾടേജിൽ നിന്നും പുറത്തേക്കാണ് അപ്പോൾ ഈ 8 വോൾട് സോഴ്സ് എന്നത് പവർ കൊടുക്കുകയാണ് ഇത് പോസിറ്റീവ് ടെർമിനലിൽ നിന്നും പുറത്തേക്കു പോകുമ്പോൾ ഇത് ആയിരിക്കും വോൾടേജ് 8 വോൾട് ആണ് പിന്നെ കറന്റ് 4 ആമ്പിയർ ആണ് അത് 4 ആണ് അപ്പോൾ പവർ 32 വാട്ട് ആണ് ഈ പവർ സപ്ലൈ ചെയ്യുകയാണ് ഇനി അടുത്ത് ഇവിടെ ഈ ഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് ന്റെ പോസിറ്റീവ് ടെർമിനലിൽ കൂടെ ആണ് കറന്റ് പ്രവേശിക്കുന്നത് അതായതു ഈ സോഴ്സ് എന്നത് പവർ അബ്സോർബ് ചെയ്യുകയാണ് ഇവിടെ ഇത് 8 വോൾട്ടും 4 ആമ്പിയരും ആണ് അപ്പോൾ p 2 എന്നത് 32 വാട്ട് ആണ് ഈ പവർ അബ്സോർബ് ചെയ്യുകയാണ് ഇത് പൂർണമായി മനസ്സിലാക്കി എന്ന് കരുതുന്നു ഞാൻ ഇത് ക്ലീൻ ആക്കുന്നു ഇനി രണ്ടാമത്തെ കേസ് ഇവിടെ I 3 ആമ്പിയർ ആണ് ഞാൻ പറയുന്നു ഇത് രണ്ടാമത്തെ കേസ് ആണ് ഈ എഴുതിയത് വായിക്കരുത് ഞാൻ അത് ക്ലീൻ ആക്കുകയാണ് ഇത് രണ്ടാമത്തെ കേസ് ആണ് ഇത് വായിക്കരുത് ഇത് കണക്കു കൂട്ടൽ ആണ് ഇത് തെറ്റാണു അതിനാൽ ഇത് വായിക്കരുത് ഞാൻ ഇത് പറയാനാണ് പോകുന്നത് ഒരു നിമിഷം നോക്കുക ഈ രണ്ടാമത്തെ കേസ് നിങ്ങൾ വായിക്കരുത് ഇനി ഞാൻ ഈ പ്രോബ്ലെത്തിലേക്കു തിരിച്ചു പോകുന്നു ഞാൻ ഇത് ക്ലീൻ ആക്കുന്നു ഈ രണ്ടാമത്തെ കേസിൽ I എന്നത് 3 ആമ്പിയർ ആണ് അത് അങ്ങനെ ആക്കുമ്പോൾ എന്ത് സംഭവിക്കും ഞാൻ ഈ സർക്യൂട് ഒന്ന്കൂടെ വരക്കാം ഈ കേസിൽ കറന്റ് 3 ആമ്പിയർ ആണ് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇത് ഒരു ഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് ആണ് സോറി ഇത് വോൾടേജ് സോഴ്സ് ഇത് 8 വോൾട് സോഴ്സ് ആണ് ഇത് കറന്റ് സോഴ്സ് ആണ് ഇവിടെ I 3 ആമ്പിയർ ആണ് ഇത് മുകളിലേക്കാണ് അത് 3 അതിനാൽ ഈ ഡയറക്ഷൻ ഇങ്ങനെ എടുക്കുകയാണ് I 3 ആമ്പിയർ ആണ് ഇത് 8 വോൾട് ഇത് 2 I ആണ് ഇത് ഒരു ഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് ആണ് ഈ കേസിൽ അത് 2 3 അതായത് 6 വോൾട് ഇനി ഇത് 8 വോൾട് നോക്കുക ഇത് 3 ആമ്പിയർ കറന്റ് ആണെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും പാസ് ചെയ്യുക ഇത് ശരിക്കും p1 ആണ് പിന്നെ ഇത് p2 ഈ കേസിൽ 3 ആമ്പിയർ കറന്റ് ഈ വോൾടേജ് സോഴ്സ് ന്റെ പോസിറ്റീവ് ടെര്മിനലിലേക്കു പ്രവേശിക്കുകയാണ് അപ്പോൾ ഈ വോൾടേജ് സോഴ്സ് പവർ സ്വീകരിക്കുകയാണ് അത് 8 വോൾട് 3 അത് 24 വാട്ട് ആണ് ഈ പവർ ഇവിടെ സ്വീകരിക്കപ്പെട്ടു എന്നാൽ ഈ കേസിൽ ഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് ന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും പുറത്തേക്കു ആണ് പോകുന്നത് അപ്പോൾ ഇത് ആണ് പവർ ഇവിടെ സപ്ലൈ ചെയ്യുകയാണ് അത് 6 വോൾട് അതായതു ഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് ന്റെ 2 3 പിന്നെ കറന്റ് എന്നത് 3 ആമ്പിയർ ആണ് അപ്പോൾ 6 3 അത് 18 വാട്ട് ആണ് ഇതിനെ നാം പറയുക സപ്ലൈ ചെയ്ത പവർ എന്നാണ് ഇത് അബ്സോർബ് ചെയ്തു എന്നാൽ ഇവിടെ ആയതിനാൽ അത് സപ്ലൈ ചെയ്തു ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 18 ഉത്തരം കിട്ടുക അതിനാൽ ഇവിടെ 6 ന്റെ ഒരു വ്യത്യാസം ഉണ്ട് എന്റെ ചോദ്യം എന്നത് ഇവിടെ ഈ പവർ ബാലൻസ് ചെയ്യേണ്ടതല്ലേ എന്തെന്നാൽ പവർ അബ്സോർബ് പവർ സപ്ലൈ എന്നത് 0 ആകേണ്ടതാണ് എന്നാൽ ഇത് 24 18 അത് 6 ആണ് ഈ പവർ അപ്പോൾ എവിടെ പോയി ഞാൻ ഒരു സൂചന തരാം എന്തെന്നാൽ ഈ സോഴ്സ് ഇവിടെ വേറൊരു 6 വാട്ട് പവർ കൂടെ സപ്ലൈ ചെയ്യുന്നുണ്ട് അത് ഈ കറന്റ് സോഴ്സ് ആണ് എന്നാൽ മാത്രമേ ഇത് മാച്ച് ആകൂ അതിനാൽ ഈ 6 വാട്ട് പവർ എവിടെ നിന്നും ലഭിക്കും എന്ന് കണ്ടുപിടിക്കുക ഈ പ്രോബ്ലം നാം സോൾവ് ചെയ്യേണ്ടതാണ് ഇത് ഒരു പ്രശ്നം തന്നെയാണ് ഞാൻ ഇത് ക്ലീൻ ആക്കുന്നു ഈ പ്രോബ്ലെത്തിലൂടെ ഇപ്പോൾ പോകരുത് അപ്പോൾ ഇവിടെ ഈ 6 എന്ന വ്യത്യാസം ഉള്ളതാണ് ഞാൻ പറയുന്നു ഈ കറന്റ് സോഴ്സ് ആണ് ഈ 6 വാട്ട് സപ്ലൈ ചെയ്യുന്നത് എന്നാൽ അത് എങ്ങനെ എന്ന് കണക്കു കൂട്ടേണ്ടതാകുന്നു അത് എങ്ങനെ എന്ന് ഞാൻ പറയുന്നില്ല എന്തെന്നാൽ അത് ഞാൻ നിങ്ങൾക്കു ചെയ്യാൻ ആയി തരുന്നു ഞാൻ ഇത് ക്ലീൻ ചെയ്യുന്നു അത് നിങ്ങൾ നോക്കണ്ട നാം ഇവിടെ ഏതാണ് വാലിഡ് കണക്ഷൻ പിന്നെ ഏതാണ് ഇൻ വാലിഡ് എന്ന് നോക്കേണ്ടതാണ് ഈ 1 2 ടെർമിനലുകൾ നോക്കുക ഇതിനു കുറുകെ 10 വോൾട് ആണുള്ളത് ഈ രണ്ടു സോഴ്സ് പാരലൽ ആയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതൊരു വാലിഡ് കണക്ഷൻ ആണ് എന്തെന്നാൽ ഇവിടെ 10 വോൾട്ടും മറ്റൊരു 10 വോൾട്ടുമാണ് ഇവിടെ ഒരു 5 ആമ്പിയർ കറന്റ് സോഴ്സ് ഉണ്ട് പിന്നെ 10 വോൾട് പിന്നെ വേറൊരു 10 വോൾട് ഇത് രണ്ടും ഈ 1 2 ടെർമിനലുകൾക് ഇടയിൽ ആണ് ഇതൊരു വാലിഡ് കണക്ഷൻ എന്നതിൽ ഒരു സംശയവും വേണ്ട ഇത് രണ്ടും വാലിഡ് കണക്ഷൻ ആണ് എന്തെന്നാൽ ഏതൊരു ടെർമിനലുകൾക്കിടയിൽ ആണെങ്കിലും ഒരേ വോൾടേജ് ആണ് കണക്ട് ചെയ്തതെങ്കിൽ അത് ഒരു വാലിഡ് കണക്ഷൻ ആണ് അത് വ്യത്യസ്തം ആണെങ്കിൽ അത് ഇൻ വാലിഡ് കണക്ഷൻ ആണ് അപ്പോൾ അത് സാധ്യമല്ല ഇനി വോൾടേജ് സോഴ്സ് കറന്റ് സോഴ്സ് ആണെങ്കിലും അത് വാലിഡ് കണക്ഷൻ ആണ് അതിനാൽ ഇത് ടെർമിനൽ 1 നും 2 നും ഇടയിൽ ആണ് ഇത് ഒരു 5 വോൾട് പിന്നെ ഇത് 10 ഇത് സാധ്യമല്ല അത് രണ്ടും വ്യത്യസ്തമാകാൻ പാടില്ല അത് ഒരേ പോലെ ആകണം എന്തെന്നാൽ അത് ഒരേ ടെര്മിനലുകൾക്ക് കുറുകെ ആണ് ഇത് അതിനാൽ വാലിഡ് കണക്ഷൻ ആണ് അതുപോലെ ഈ 1 2 ആമ്പിയർ കറന്റ് സോഴ്സ് ആണ് പിന്നെ മറ്റൊരു 5 ആംപിയർ ഇതും ഒരു വാലിഡ് കണക്ഷൻ അല്ല ഇവിടെ ഇത് ഇൻ വാലിഡ് കണക്ഷൻ ആണ് ഈ രണ്ടു രീതിയിലും ഇത് ഇൻ വാലിഡ് ആണ് അതുപോലെ ഇതും ഇൻ വാലിഡ് കണക്ഷൻ ആണ് അതിനാൽ a b എന്നിവ വാലിഡ് കണക്ഷൻ ആണ് പിന്നെ c d എന്നിവ ഇൻ വാലിഡ് കണക്ഷൻ ആണ് ഇതെല്ലാം എക്സെർസൈസുകൾ ആണ് അതിനാൽ എക്സർസൈസ് 1 അതിന്റെ ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു ഈ വീഡിയോ പോസ് ചെയ്തു നമുക്ക് ഈ പ്രോബ്ലം നോക്കാം ഇത് പ്രോബ്ലം 2 ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇത് ശരിയാണെന്നു വിശ്വസിക്കുന്നു ഇനി പ്രോബ്ലം 3 ഇത് ഒരു പവർ അബ്സോർബ് പവർ സപ്ലൈ പ്രോബ്ലം ആണ് എല്ലാ ഉത്തരങ്ങളും ഇവിടെ കൊടുത്തിരിക്കുന്നു ഇനി പ്രോബ്ലം 4 ഇതും തന്നിരിക്കുന്നു ഇത് ആകെ ചാർജ് കണ്ടു പിടിക്കാൻ ആണ് ഇതിന്റെ ഉത്തരവും തന്നിരിക്കുന്നു ഇതാണ് പ്രോബ്ലം 5 നാം ഇതെല്ലാം നാം ചെയ്യുന്നതാണ് ഇതിന്റെയും ഉത്തരം തന്നിരിക്കുന്നു ഇത് നാം സോൾവ് ചെയ്യുന്നതാണ് ഇത് ആദ്യം പിന്നീട് എല്ലാ ഉത്തരങ്ങളും ഇത് വാലിഡ് അല്ലെങ്കിൽ ഇൻ വാലിഡ് ആണോ എന്ന് നോക്കാൻ ആണ് യഥാർത്ഥത്തിൽ പവർ അബ്സോർബ് അല്ലെങ്കിൽ പവർ സപ്ലൈ ആണ് എല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു ഇത് നന്നായി വായിക്കുക ഈ a b c എല്ലാം തന്നെ നോക്കുക അത് പ്രോബ്ലം 6 ആണ് ഇത് വോൾടേജ് 0 ഇത് ഒരു ടൈം വേരിയിങ് വോൾടേജ് ആണ് തന്നിരിക്കുന്നത് ഇവിടെ 5 കണക്ഷനുകൾ ആണുള്ളത് ഇതിൽ ഇതെലാം വാലിഡ് ആണ് ഏതെല്ലാം ഇൻ വാലിഡ് ആണ് എന്ന് നോക്കണം അതിന്റെ ഉത്തരങ്ങൾ തന്നിരിക്കുന്നു ഇതും ടൈം വേരിയിങ് വോൾടേജ് ആണ് നാം ac സർക്യൂട് നോക്കുന്നതാണ് അത് തന്നിട്ടുണ്ട് നമുക്ക് എനർജി ആണ് കണ്ടു പിടിക്കേണ്ടത് ഇത് മറ്റൊരു ലളിതമായ പ്രോബ്ലം ആണ് അത് കണ്ടു പിടിക്കുക ഉത്തരം നൽകുന്നതാണ് ഈ എലമെന്റ് ഇത്രയുമാണ് ഇത് കണക്ട് ചെയ്താൽ ഇത് 30000 ജൂൾ ആണ് ഉപയോഗിക്കുക ഇത് ടൈം വേരിയിങ് കറന്റ് ആണ് ഇനി നമുക്ക് അകെ ചാർജ് ആണ് കണ്ടു പിടിക്കേണ്ടത് അതിന്റെയും ഉത്തരം തന്നിരിക്കുന്നു എല്ലാം ഇവിടെ തന്നിരിക്കുന്നു വളരെ നന്ദി നാം വീണ്ടും വരുന്നതാണ്